വൈദ്യുതകാന്തിക മണ്ഡലങ്ങൾ വഹിക്കുന്ന ലീനിയർ മൊമെൻ്റവും ആംഗുലർ മൊമെൻ്റവും വൈദ്യുതകാന്തികമണ്ഡലം വഹിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമുക്ക് ലഭിച്ച S എന്നത് 1 ഓവർ mu 0 E ക്രോസ് B ആണ് S ൻറെ മാഗ്നിറ്റ്യൂഡ് അതിലെ ഊർജ്ജ സാന്ദ്രതയുടെ C മടങ്ങിന് തുല്യമാണെന്ന് കാണിക്കാൻ വളരെ എളുപ്പമാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ഒരു ചോദ്യമായി ഞാൻ തരുന്നു അതിനാൽ ഇതിനെ ഒരു പാത്രത്തിലുള്ള ഉള്ള ജലം അല്ലെങ്കിൽ rho സാന്ദ്രതയുള്ള ഏതെങ്കിലും ദ്രാവകമായി കരുതുക അത് v വേഗത്തിൽ ഒഴുകുന്നു എങ്കിൽ ഒരു യൂണിറ്റ് സമയത്തേക്ക് നീങ്ങുന്ന ജലത്തിന്റെ ഒഴുക്ക് സാന്ദ്രതയുടെ v യുടെ മടങ്ങിന് തുല്യമായിരിക്കും അതേ രീതിയിൽ യൂണിറ്റ് ഏരിയയിലെ ഓരോ യൂണിറ്റ് സമയത്തിനും ഉള്ള ഊർജ്ജപ്രവാഹം u തവണ c ആയിരിക്കും S10EB Su c ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന മൊമെന്റം സമവാക്യത്തിൽ ഞാൻ ഇത് ഉപയോഗിക്കും വൈദ്യുതകാന്തികക്ഷേത്രവും മൊമെന്റം വഹിക്കുന്നു അതിനെ ഈ പോയിന്റിംഗ് വെക്റ്റർ നമ്മൾ കണ്ടുപിടിച്ച അതേ രീതിയിൽ കാണാവുന്നതാണ് അതിൽ ഉള്ള വ്യത്യാസം എന്തെന്നാൽ കണ്ടു പിടിക്കുന്ന രീതി കുറച്ചുകൂടി സങ്കീർണ്ണവും ഈ കോഴ്സിന്റെ നിലവാരത്തിന് അപ്പുറവുമാണ് അതിനാൽ ഈ S ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് ഉള്ള ഊർജ്ജപ്രവാഹം അല്ലാതെ മറ്റൊന്നുമല്ല അതിൻറെ അളവുകൾ M v സ്ക്വയർ ഓവർ L സ്ക്വയർ സമയം ആയിരിക്കും അത് താഴെ പറയുന്ന രീതിയിൽ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം ഡെൻസിറ്റിയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു Sഊർജ്ജംവിസ്തീർണ്ണം X സമയംMv2L2 സമയം മൊമെന്റം ഡെൻസിറ്റി M v ഓവർ L ക്യൂബ് എന്ന അളവിൽ ആയിരിക്കും ഇത് S വെക്റ്റർ ഓവർ C സ്ക്വയറാണ് ഇവിടെ C എന്നത് പ്രകാശത്തിന്റെ വേഗതയാണ് മൊമെന്റം ഡെൻസിറ്റിMvL3Sc2 അതിന്റെ അർത്ഥം എന്തെന്നാൽ ചില മേഖലയിൽ E ഫീൽഡും B ഫീൽഡും ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ ഈ ഫീൽഡിൽ മൊമെന്റം ഉണ്ട് അതിനാൽ ഒരു യൂണിറ്റ് വോള്യത്തിന് ഉള്ള മൊമെന്റം ഡെൻസിറ്റി S ഓവർ c സ്ക്വയറാണ് അത് 1 ഓവർ c സ്ക്വയർ തവണ 1ഓവർ mu 0 E ക്രോസ് B ആയിരിക്കും 1 ഓവർ c സ്ക്വയർ എന്നാൽ mu 0 എപ്സിലോൺ 0 ആയതിനാൽ മൊമെന്റം ഡെൻസിറ്റി എപ്സിലോൺ 0 E ക്രോസ് B എന്നും എഴുതാം അതിനാൽ E B എന്നീ ഫീൽഡുകൾ നിലനിൽക്കുന്ന ഈ മേഖലയിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ വോളിയം എടുക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഈ വോള്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൊമെന്റം ഒരു യൂണിറ്റ് വോള്യത്തിന് എപ്സിലോൺ 0 E ക്രോസ് B ആയിരിക്കും ഇത് മൊമെന്റം ഡെൻസിറ്റി ആണ് വ്യക്തമായും ഇവിടെ ഒരു മൊമെന്റത്തിൻറെ ഒഴുക്ക് ഉണ്ടായിരിക്കും അത് ഊർജ്ജ പ്രവാഹത്തിന് വേണ്ടി മാത്രം ഞാൻ വാദിച്ചതുപോലെ c മടങ്ങ് മൊമെന്റം ഡെൻസിറ്റി അല്ലാതെ മറ്റൊന്നുമല്ല ഇത് 1 ഓവർ c തവണ S അതായത് ഇത് 1 ഓവർ c തവണ 1 ഓവർ mu 0 E ക്രോസ് B ആയിരിക്കും മൊമെന്റം ഡെൻസിറ്റിSc21c210EB1c200 മൊമെന്റം ഡെൻസിറ്റി0 മൊമെന്റത്തിൻറെ ഒഴുക്ക്c×മൊമെന്റം ഡെൻസിറ്റി1c S1c10EB ഞാൻ ഇപ്പോൾ ഉത്കണ്ഠപ്പെടുന്നത് വൈദ്യുതകാന്തിക മണ്ഡലം വഹിക്കുന്ന ഒരു മൊമെന്റം ഡെൻസിറ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ സൂത്രവാക്യം ഒരു ഉദാഹരണത്തിലൂടെ തെളിയിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് ആ ഉദാഹരണം ചെയ്യാം ഞാൻ എടുക്കുന്ന ഉദാഹരണത്തിൽ എനിക്ക് രണ്ട് ചാർജ് ഉള്ള ഷീറ്റുകൾ ഉണ്ടെന്ന് കരുതുക മുകളിൽ ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് സിഗ്മയും താഴെയുള്ളത് ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് മൈനസ് സിഗ്മയും ചാർജ് വഹിക്കുന്നു അതിനാൽ ഈ രണ്ടിനും ഇടയിൽ ഒരു വൈദ്യുത മണ്ഡലം നിലനിൽക്കുന്നു ഇലക്ട്രിക് ഫീൽഡിൻറെ മാഗ്നിറ്റ്യൂഡ് സിഗ്മ ഓവർ എപ്സിലോൺ 0 ആകുന്നു ഇപ്പോൾ മുകളിലെ പ്ലേറ്റിൽ വലതുവശത്തേക്കും താഴത്തെ പ്ലേറ്റിൽ ഇടതുവശത്തേക്കും പോകുന്ന ഒരു ഉപരിതല കറന്റ് K അവ വഹിക്കുന്നുവെന്ന് കരുതുക E0 അപ്പോൾ ആമ്പിയറുടെ നിയമപ്രകാരം നിങ്ങൾക്ക് പുറത്തുള്ള B 0 ആയിരിക്കുമെന്നും B അകത്ത് ഈ ദിശയിൽ ആയിരിക്കുമെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ അത് ഈ സ്ക്രീനിലേക്ക് പോകുന്ന ദിശയിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് mu 0 K ആവുകയും ചെയ്യും അതിനാൽ S വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് 1 ഓവർ mu 0 E ക്രോസ് B എന്നത് സിഗ്മ K ഓവർ Epsilon 0 ന് തുല്യമായിരിക്കും അതിനാൽ മൊമെന്റം ഡെൻസിറ്റി 1 ഓവർ c സ്ക്വയർ സിഗ്മ K ഓവർ Epsilon 0 ആകും അത് mu 0 സിഗ്മ K ആയിരിക്കും അതാണ് ഈ മേഖലയിൽ യൂണിറ്റ് വോളിയത്തിൽ ഉള്ള മൊമെന്റം ഡെൻസിറ്റി അല്ലെങ്കിൽ മൊമെന്റം B0KS10EBσK0 മൊമെന്റം ഡെൻസിറ്റി1c2σK00σK ഇത് എങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ അടങ്ങിയിരിക്കുന്ന മൊമെന്റം ഡെൻസിറ്റിയാണ് ഞാൻ K ഡോട്ട് നിരക്കിൽ K സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകുന്നു നമ്മൾ ഈ കറന്റ് K സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇത് കാന്തികക്ഷേത്രം കുറയ്ക്കാൻ പോകുന്നു നിങ്ങൾ ബോർഡിലേക്ക് പോകുന്ന ഫീൽഡ് കുറയ്ക്കുകയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം അതിനാൽ ഈ രണ്ട് ഷീറ്റുകൾ നമുക്കുണ്ട് അവയെ ഞാനിവിടെ അവയെ സിഗ്മ മൈനസ് സിഗ്മ എന്നിങ്ങനെയുള്ള രണ്ടു വരകളായി കാണിക്കുന്നു ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് താഴേക്ക് വരുന്നു ഉപരിതല വൈദ്യുത പ്രവാഹം K ഈ രണ്ടു ദിശകളിൽ ആയി പോകുന്നു കാന്തികക്ഷേത്രം അകത്തേക്ക് പോകുന്നു ഫാരഡെയുടെ നിയമപ്രകാരം K കുറയ്ക്കുകയാണെങ്കിലും B കുറയുന്നതു കാരണം നമുക്ക് ഒരു വൈദ്യുത മണ്ഡലം അകത്ത് ഉണ്ടാക്കപ്പെടുന്നു നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്തു കണ്ടുപിടിക്കാൻ കഴിയും ഇപ്പോൾ B അകത്തേക്ക് പോകുന്നു അതേ ദിശയിൽ B യെ ഉൽപാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അത് ഒരുപോലെ ആയിരിക്കേണ്ടതാണ് അതിനാൽ അവിടെയുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് പ്ലേറ്റിന് സമാന്തരമായി മുകളിലെ പ്ലേറ്റിൽ വലത്തേയ്ക്കും താഴത്തെ പ്ലേറ്റിൽ ഇടത്തേയ്ക്കും പോകുന്നു ഇത് വരുന്നത് കേൾ E ഇൻഡ്യൂസ് എന്നത് മൈനസ് d B by d t ക്ക് തുല്യമാണ് എന്നാണ് സ്റ്റോക്സ് സിദ്ധാന്തം ഉപയോഗിച്ച് എനിക്ക് വൈദ്യുത മണ്ഡലത്തിന്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാം E B∂t ഞാൻ മുകളിലും താഴെയുമായി l നീളമുള്ള ഒരു ചെറിയ ലൂപ്പ് എടുക്കും പ്ലേറ്റുകൾക്കിടയിലുള്ള ദൂരം ഞാൻ d ആക്കും പിന്നെ ഇൻ്റഗ്രൽ E dot d l എന്നാൽ മൈനസ് d B d t dot d a യ്ക്ക് തുല്യമായിരിക്കും അത് 2 E തവണ l നൽകുന്നു 2 എന്നെഴുതാൻ കാരണം ഇത് മുകളിലും താഴെയുമുള്ളതിൽ നിന്ന് എടുക്കുന്നു ഇത് ഫ്ലക്സിലെ മാറ്റത്തിന് തുല്യമാണ് അതായത് mu 0 K ഡോട്ട് l തവണ d ആണ് നമുക്ക് l ഒഴിവാക്കാം അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ലഭിക്കുന്നത് mu 0 K ഡോട്ട് d ഓവർ 2 എന്നാണ് ഇത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ വീണ്ടും സമാന്തര പ്ലേറ്റുകൾ വരക്കട്ടെ മുകളിലെ പ്ലേറ്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഇതുപോലെയാണ് താഴത്തെ പ്ലേറ്റിൽ അത് വിപരീത ദിശയിലാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് mu 0 K dot d ഓവർ 2 ആണ് അതിനാൽ ഇത് സിഗ്മയിലും മൈനസ് സിഗ്മയിലും ബലം പ്രയോഗിക്കും മുകളിലെ പ്ലേറ്റിലെ ശക്തി ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് E തവണ സിഗ്മ ആയിരിക്കും

dE0d2dKdt അതിനാൽ മുകളിലത്തെ പ്ലേറ്റിൽ ഇത് ഒരു യൂണിറ്റ് ഏരിയയിൽ mu 0 d ഓവർ 2 K ഡോട്ട് സിഗ്മ ആയിരിക്കും താഴത്തെ പ്ലേറ്റിൽ വീണ്ടും ഫോഴ്സ് mu 0 d ഓവർ 2 K ഡോട്ട് സിഗ്മ ആയിരിക്കും അതിനാൽ മുഴുവൻ സിസ്റ്റത്തിലുമുള്ള ആകെ ഫോഴ്സ് mu 0 d K ഡോട്ട് സിഗ്മ ആയിരിക്കും ഇത് സിസ്റ്റത്തിന്റെ പ്ലേറ്റുകളുടെ മൊമെന്റത്തിൻറെ d by d t ക്ക് തുല്യമായിരിക്കണം ഈ മൊമെന്റം എവിടെ നിന്ന് വരുന്നു കുറയുന്ന ചില വൈദ്യുതകാന്തിക മണ്ഡലങ്ങളിൽ നിന്നാണ് മൊമെന്റം വരുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു ആകെ ഫോഴ്സ്0dσdKdtddtമൊമെന്റം അതിനാൽ വൈദ്യുതകാന്തിക മണ്ഡലത്തിന്റെ മൊമെന്റം കുറയുന്നു അത് ഈ മെക്കാനിക്കൽ മൊമെന്റത്തി ലേക്ക് പോകുന്നു മുൻപത്തെ സ്ലൈഡിൽ മൊമെന്റം ഡെൻസിറ്റി mu 0 സിഗ്മ K ആണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ യൂണിറ്റ് ഏരിയയിൽ ഉള്ള നെറ്റ് മൊമെൻ്റിൻ്റെ അളവ് അതായത് ഈ വോളിയത്തിൽ ഉള്ള യൂണിറ്റ് ഏരിയ എന്നത് mu 0 സിഗ്മ K ഏരിയ 1 ആണ് ഉയരം d അതിനാൽ ഇതിനെ mu 0 sigma K d എന്ന് എഴുതാം അതിനാൽ ഈ പ്ലേറ്റുകളിൽ നമുക്കുള്ളത് ഒരു യൂണിറ്റ് ഏരിയയിൽ അടങ്ങിയിരിക്കുന്ന മൊമെന്റം mu 0 സിഗ്മ K d ആണ് നമ്മൾ K സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ യൂണിറ്റ് സമയത്തിനനുസരിച്ചുള്ള ഡെൽറ്റ മൊമെന്റം mu 0 സിഗ്മ K ഡോട്ട് d ആയി വരുന്നു അതാണ് പ്ലേറ്റുകളുടെ മൊമെന്റം അതിനാൽ K കുറയുമ്പോൾ പ്ലേറ്റുകൾക്കിടയിലുള്ള ഫീൽഡിന്റെ മൊമെന്റം കുറയുകയും അത് പ്ലേറ്റുകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും മൊമെന്റംസമയം0σddKdt അതിനാൽ ഫീൽഡ് മൊമെന്റം വഹിക്കുമെന്നും അത് പ്ലേറ്റുകളിലേക്ക് മാറ്റുമെന്നും നമ്മൾ ആ ഫോർമുലയിലൂടെ കാണിച്ചതാണ് അവസാനമായി മുഴുവൻ സമയത്തിലും ഇൻറഗ്രേറ്റ് ചെയ്യുമ്പോൾ mu 0 K സിഗ്മ d എന്ന മുഴുവൻ മൊമെന്റവും പ്ലേറ്റുകളിലേക്ക് പോകും കാരണം മുഴുവൻ സമയത്തിൽ mu 0 സിഗ്മ K ഡോട്ട് d ഇൻറഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് mu 0 സിഗ്മ K d ആയി വരുന്നു ഇത് പ്ലേറ്റുകളിലേക്ക് മാറ്റിയ ഫീൽഡുകളുടെ മൊമെന്റം ആണ് അവസാനമായി നമ്മൾ ഊർജ്ജത്തെക്കുറിച്ചും വൈദ്യുതകാന്തിക മണ്ഡലത്തിലെ ലീനിയർ മൊമെന്റത്തിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ E M ഫീൽഡുകൾ ആംഗുലർ മൊമെന്റം വഹിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഈ മൂന്ന് പ്രഭാഷണങ്ങളുടെ ചർച്ചയും അവസാനിപ്പിക്കും അത് ആശ്ചര്യപ്പെടേണ്ടതില്ല കാരണം മൊമെന്റം p ഉണ്ടെങ്കിൽ ആംഗുലർ മൊമെന്റം r ക്രോസ് p ആയിരിക്കും അങ്ങനെ ലീനിയർ മൊമെന്റവും ആംഗുലർ മൊമെന്റവും എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് തെളിയിക്കാം Lrp അതിനാൽ ഒരു പ്രദേശത്ത് വൈദ്യുതകാന്തിക മണ്ഡലങ്ങളായ E B എന്നിവ ഉണ്ടെങ്കിൽ അവിടെ S എന്നാൽ 1 ഓവർ mu 0 E ക്രോസ് B ക്ക് തുല്യമാണെന്ന് നമ്മൾ കണ്ടു യൂണിറ്റ് വോളിയത്തിന് മൊമെന്റത്തിൻറെ അളവ് എപ്സിലോൺ 0 E ക്രോസ് B ആയിരിക്കും അതിനാൽ യൂണിറ്റ് വോളിയത്തിന് ഉള്ള ആംഗുലർ മൊമെന്റം എപ്സിലോൺ 0 r ക്രോസ് E ക്രോസ് B ആയിരിക്കും ഇത് ഇത് ശരിയാണൊ വീണ്ടും നമുക്കിത് ഒരു ഉദാഹരണത്തിലൂടെ കാണാവുന്നതാണ് S10EB മൊമെന്റംവ്യാപ്തം0 ആംഗുലർ മൊമെന്റംവ്യാപ്തം0r× അതിനായി ഞാൻ എടുക്കുന്ന ഉദാഹരണത്തിൽ ഉപരിതല ചാർജ് സിഗ്മ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് ചാർജ് ലാംഡ വഹിക്കുന്ന ഒരു സോളിനോയിഡ് ആണുള്ളത് ഇതിന് ചുറ്റും മറ്റൊരു സോളിനോയിഡ് ഉണ്ട് അത് ചാർജ് മൈനസ് ലാംഡ വഹിക്കുന്നു കൂടാതെ അത് വലതു വശത്തുകൂടി പോയി ഇടതുവശത്തുകൂടി പുറത്തുവരുന്ന ഒരു ഉപരിതല പ്രവാഹവും വഹിക്കുന്നു അതിനാൽ ഇതുപോലുള്ള ഉപരിതല പ്രവാഹമാണ് ഇവിടെ ഉപരിതല പ്രവാഹം വഹിക്കുന്നത് ഏറ്റവും ബാഹ്യമായ ഒന്നിൽ മാത്രമാണ് അകത്തെ സിലിണ്ടർ ഷെല്ലിന്റെ ആരം a യും പുറത്തെ ഷെല്ലിന്റെ ആരം b യും ആകട്ടെ ഇവിടെ ഞാൻ s സിലിണ്ടർ കോർഡിനേറ്റുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ s a യെക്കാൾ കുറവാകുമ്പോൾ വൈദ്യുത മണ്ഡലം E പൂജ്യമായിരിക്കും s a യെക്കാൾ വലുതും b യെക്കാൾ ചെറുതും ആകുമ്പോൾ E എന്നത് ലാംഡ ഓവർ 2 പൈ എപ്സിലോൺ 0 s ആയിരിക്കും കൂടാതെ s b യെക്കാൾ വലുതാണെങ്കിലും E പൂജ്യമായിരിക്കും പുറം ഷെല്ലിൽ ഒരു കറന്റ് ഉള്ളതിനാൽ s b യെക്കാൾ ചെറുതാകുമ്പോൾ കാന്തിക മണ്ഡലം B യുടെ മാഗ്നിറ്റ്യൂഡ് mu 0 K ആകുന്നു അപ്പോൾ അവിടെ a ക്കും b ക്കും ഇടയിൽ ഒരു മൊമെന്റം ഡെൻസിറ്റി ഉണ്ടാകുന്നു അത് എപ്സിലോൺ 0 E ക്രോസ് B ആയിരിക്കും അത് a b എന്നിവയ്ക്കിടയിൽ മാത്രമേ പൂജ്യമല്ലാതിരിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം 0 ആയിരിക്കും E0 sa and sb 2π0s asb ഇനി നമുക്ക് ദിശകൾ നോക്കാം E ഫീൽഡുകൾ അകത്തെ ഷെല്ലിൽ നിന്ന് പുറത്തേക്കാണ് B ഫീൽഡ് മുകളിലേക്കുള്ള ദിശയിലാണ് അതിനാൽ E ക്രോസ് B ഇവിടെ നിന്ന് പുറത്തു വരികയും ഇതിലൂടെ പോകുകയും ചെയ്യുന്നു കാരണം B ഇതുപോലെയാണ് അതിനാൽ E ക്രോസ് B അകത്തേക്ക് പോകുന്നു അതിനാൽ ഈ കോമ്പിനേഷനിൽ എന്താണുള്ളത് ഷെല്ലിന്റെ വലതുവശത്തുകൂടി ഒരു വൈദ്യുതകാന്തിക മൊമെന്റം പുറത്തുവരുന്നു ഇത് ഷെല്ലിന്റെ ഇടതുവശത്തുകൂടി അകത്തേക്ക് പോകുന്നു ഇത് ചുറ്റും നടക്കുന്നതിനാൽ ഇത് ഒരു ആംഗുലർ മൊമെന്റം ഉണ്ടാക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് അത് കണക്കുകൂട്ടാം മൊമെന്റം ഡെൻസിറ്റി E ക്രോസ് ബി എന്നത് എപ്സിലോൺ 0 E എന്നാൽ ലാംഡ ഓവർ 2 പൈ എപ്സിലോൺ 0 S തവണ B എന്നാൽ mu 0 K ആണ് അപ്പോൾ ഇതിൽ എപ്സിലോൺ 0 ഒഴിവാക്കി ലാംഡ mu 0 K ഓവർ 2 പൈ S എന്ന് ലഭിക്കും ഇതാണ് മൊമെന്റം ഡെൻസിറ്റി മൊമെന്റം ഡെൻസിറ്റി0K2πs അതിനാൽ എനിക്കുള്ളത് ഈ സോളിനോയിഡും ഇതിനു പുറത്ത് ഒരു സോളിനോയിഡുമാണ് ഈ പ്രദേശത്ത് ഈ മൊമെന്റം ഡെൻസിറ്റിയുണ്ട് അത് ഇവിടെ നിന്ന് പുറത്തേക്ക് വരികയും ഇവിടെ പോകുകയും ചെയ്യുന്നു അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മളിപ്പോൾ കണക്കാക്കിയതാണ് അത് ലാംഡ mu 0 K ഓവർ 2 പൈ S ആണ് എങ്ങനെയാണ് പൊതുവായ അക്ഷത്തെക്കുറിച്ചുള്ള ആംഗുലർ മൊമെന്റം ഞാൻ ഈപൊതുവായ അക്ഷത്തെ മധ്യഭാഗത്തായി എടുക്കട്ടെ ഇത് s തവണ മൊമെന്റം ഡെൻസിറ്റി ആയിരിക്കും അതിനാൽ ഇത് ലാംഡ mu 0 K ഓവർ 2 പൈ ആകും നെറ്റ് ആംഗുലർ മൊമെന്റം എന്തായിരിക്കും ആംഗുലർ മൊമെന്റം ഡെൻസിറ്റിപൊതുവായ അക്ഷത്തിലെS×മൊമെന്റം ഡെൻസിറ്റി0K2π അതിനാൽ ആകെ ആംഗുലർ മൊമെന്റം ഡെൻസിറ്റിയുടെ ദിശ താഴേക്ക് ആയിരിക്കും കാരണം ഇത് s ക്രോസ് k ആണ് ഇത് താഴേക്ക് ഉള്ള ദിശയിൽ ആവുകയും ആകെ ആംഗുലർ മൊമെന്റം അതിനാൽ ലാംഡ mu 0 K ഓവർ 2 പൈ ആകും പിന്നെ ഈ ഷെല്ലിൽ ഇവിടെ നിന്ന് ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് ആകെ ആംഗുലർ മൊമെന്റം ഇൻറഗ്രൽ a മുതൽ b വരെ 2 പൈ S d s തവണ യൂണിറ്റ് ദൈർഘ്യം 1 ആണ് ഇവിടേ നമുക്ക് 2 പൈ ഒഴിവാക്കാം അങ്ങനെ ഇത് ലാംഡ mu 0 K b സ്ക്വയർ മൈനസ് a സ്ക്വയർ ഓവർ 2 ആയിരിക്കും ഇതാണ് ഈ രണ്ട് ഷെല്ലുകൾക്കിടയിലുള്ള ആകെ ആംഗുലർ മൊമെന്റം ആകെ ആംഗുലർ മൊമെന്റംനീളംab0K2π 2πsds0K2 അതിനാൽ ഈ മേഖലയിലെ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് ഞാൻ ഇത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ ആംഗുലർ മൊമെന്റം ലാംഡ mu 0 K ഓവർ 2 b സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയിരിക്കും ഇതിൽ തന്നെ നിങ്ങൾ K കുറയ്ക്കുമ്പോൾ മുകളിലേക്ക് ഉണ്ടായിരുന്ന ഫീൽഡ് B താഴേക്ക് പോകാൻ തുടങ്ങും ഫീൽഡ് താഴേക്ക് പോകുന്തോറും ഫീൽഡ് വളരെ ചെറുതായികൊണ്ടിരിക്കും അതിനാൽ B യിലെ മാറ്റം ഒരു വൈദ്യുത മണ്ഡലം ഉൽപാദിപ്പിക്കുകയും ആ വൈദ്യുത മണ്ഡലം എങ്ങനെയായിരിക്കുമെന്നാൽ അത് അതേ ദിശയിൽ ഫീൽഡ് സൃഷ്ടിക്കുകയും ചെയ്യും അതിനാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഇവിടേക്ക് പോകുന്നത് പോലെയാണ് അത് ഈ വശത്ത് കൂടി പുറത്തേക്ക് വരുന്നു സ്റ്റോക്ക് സിദ്ധാന്തം പ്രയോഗിച്ചുകൊണ്ട് എനിക്ക് കേന്ദ്രത്തിൽ നിന്ന് S അകലെയുള്ള വൈദ്യുത മണ്ഡലം കണക്കുകൂട്ടാൻ കഴിയും അത് 2 പൈ S E എന്നാൽ പൈ S സ്ക്വയർ B ഡോട്ട് ആണ് ഇത് പൈ S സ്ക്വയർ mu 0 K ഡോട്ട് ആയിരിക്കും അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഫോർമുല അതിനാൽ വീണ്ടും ഞാൻ ഒരു S പൈ എന്നിവ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് E എന്നാൽ mu 0 K ഡോട്ട് ഓവർ 2 S ലഭിക്കുന്നു ആണ് അവിടെ ഉണ്ടായ വൈദ്യുത ഫീൽഡ് E0s2dKdt അതിനാൽ ആന്തരിക സിലിണ്ടർ ഉപരിതലത്തിലെ വൈദ്യുത മണ്ഡലം E എന്നത് mu 0 ഓവർ 2 K dot a ഉം പുറത്തെ സിലിണ്ടർ ഉപരിതലത്തിൽ E എന്നത് mu 0 ഓവർ 2 K dot b ഉം ആയിരിക്കും എന്നിരുന്നാലും ആന്തരിക ഉപരിതലത്തിന് ചാർജ്ജ് ലാംഡ ഉണ്ട് പുറത്തെ ഉപരിതലത്തിന് മൈനസ് ലാംഡയും ഉണ്ട് അതിനാൽ ശക്തികൾ വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നു ഇലക്ട്രിക് ഫീൽഡ് പുറത്തെ ഉപരിതലത്തിൽ അകത്തേക്ക് പ്രവേശിക്കുകയും ഈ ഭാഗത്തുകൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നു അതിനാൽ മൈനസ് ചിഹ്നം കാരണം വിപരീത ദിശയിൽ ഇത് ഒരു ശക്തി നൽകും ആന്തരിക വൃത്തത്തിൽ അത് E യുടെ അതേ ദിശയിലായിരിക്കും Eആന്തരിക സിലിണ്ടർ ഉപരിതലം02adKdt Eബാഹ്യ സിലിണ്ടർ ഉപരിതലം02bdKdt ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ബാഹ്യ ഷെല്ലിലെ ബലം ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് ലാംഡയാണ് അത് ഒരു യൂണിറ്റ് ദൈർഘ്യത്തിന് 2 പൈ b സിഗ്മ E ആണ് ഇവിടെ സിഗ്മ ഉപരിതല ചാർജ് സാന്ദ്രതയാണ് അതിനാൽ ഇത് നമ്മൾ ഇതിനകം കണ്ട ലാംഡ മടങ്ങ് E ആണ് ഇത് mu 0 K ഡോട്ട് b ഓവർ 2 ആണ് അതിനാൽ പുറം ഷെല്ലിലെ ടോർക്ക് ലാംഡ mu 0 ഓവർ 2 K dot b സ്ക്വയറിന് തുല്യമായിരിക്കും സമാനമായ രീതിയിൽ നിങ്ങൾക്ക് ആന്തരിക ഷെല്ലിൽ ടോർക്ക് കണക്കാക്കാം അത് മൈനസ് ചിഹ്നമുള്ള ലാംഡ mu 0 ഓവർ 2 K dot a സ്ക്വയറിന് തുല്യമായിരിക്കും ബാഹ്യ ഷെല്ലിലെ ബലം2πbσE0b2dKdt പുറം ഷെല്ലിലെ ടോർക്ക് 0b22dKdt ആന്തരിക ഷെല്ലിലെ ടോർക്ക് 0a22dKdt അതിനാൽ സിസ്റ്റത്തിലെ ആകെ ടോർക്ക് ലാംഡാ mu 0 ഓവർ 2 K ഡോട്ട് b സ്ക്വയർ മൈനസ് a സ്ക്വയർ ആകുന്നു സിസ്റ്റത്തിന്റെ ആകെ ആംഗുലർ മൊമെന്റം ഒരു പ്രാരംഭ മൂല്യം K മുതൽ 0 വരെ ഇൻറഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാംഡാ mu 0 ഓവർ 2 K b സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയിരിക്കും ഈ ആംഗുലർ മൊമെന്റം എവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണക്കാക്കിയ ഈ ആംഗുലർ മൊമെന്റം വൈദ്യുതകാന്തിക മണ്ഡലം വഹിക്കുന്നുവെന്ന് നമ്മൾ ഇതിനകം കാണിച്ചു ആകെ ടോർക്ക്02dKdt സിസ്റ്റത്തിന്റെ ആകെ ആംഗുലർ മൊമെന്റം02K അതിനാൽ ആ ആംഗുലർ മൊമെന്റം ഇപ്പോൾ സിലിണ്ടറുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനാൽ നമ്മൾ കാണിച്ചത് വൈദ്യുതകാന്തിക മണ്ഡലം ആംഗുലർ മൊമെന്റം വഹിക്കുന്നുവെന്നും അത് ചില സംവിധാനങ്ങളിലൂടെ ഷെല്ലുകളിലേക്കോ ചുറ്റുമുള്ള സിസ്റ്റങ്ങളിലേക്കോ മാറ്റാവുന്നതാണ് ഇതിലൂടെ വീണ്ടും അത് മെക്കാനിക്കൽ ആംഗുലർ മൊമെന്റം കൂട്ടുന്നതിന് തുല്യമാണ്